അടുത്തതായി മറ്റൊരു നിയന്ത്രിത ഉറവിടത്തിലേക്ക് നോക്കാം അത് വോൾട്ടേജ് നിയന്ത്രിത കറണ്ട് ഉറവിടമാണ് ഇത് കറണ്ട് ഉറവിടത്തിന് സമാനമായ ഒരു ചിഹ്നമാണ് നൽകുന്നത് നിയന്ത്രിത ഉറവിടങ്ങളിൽ നിന്ന് സ്വതന്ത്ര ഉറവിടങ്ങളെ വേർതിരിച്ചറിയാൻ വീണ്ടും ഒരു സർക്കിളിന് പകരം ഒരു വജ്രം ചിഹ്നം ഉപയോഗിക്കുന്നു കൂടാതെ നമുക്ക് നിയന്ത്രണ നോഡുകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇത് പറയുന്നത് n1 നും n2 നും ഇടയിലുള്ള വോൾട്ടേജ് Vx ആണെന്ന് കരുതുക ഇത് ചില കറണ്ട് GVx n3 ൽ നിന്ന് n4 ലേക്ക് പ്രവഹിക്കാൻ കാരണമാകും അതിനാൽ ഇപ്പോൾ ഈ G ക്ക് കണ്ടക്ടൻസ് ഇന്റെ ഡൈമെൻഷൻ ആണ് ഉള്ളത് കാരണം ഇത് ഒരു വോൾട്ടേജിനെ ഗുണിക്കുകയും ഒരു വൈദ്യുതധാരയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇതിന് കണ്ടക്ടൻസ് ഇന്റെ ഡൈമെൻഷൻ ആണ് ഉള്ളത് ചിലപ്പോൾ ഇതിനെ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സ്രോതസിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നു വോൾട്ടേജ് കൺട്രോൾ കറന്റ് സോഴ്സിനെ വിസിസിഎസ് എന്ന് ചുരുക്കിപ്പറയുന്നത് സാധാരണമാണ് അതുപോലെ തന്നെ മറ്റെല്ലാ നിയന്ത്രിത ഉറവിടങ്ങൾക്കും അതിനാൽ ഈ വൈദ്യുതധാര ജിവിഎക്സ് ആയതിനാൽ ഇത് വിഎക്സിന്റെ ഒരു ലീനിയർ ഫങ്ക്ഷൻ ആണ് ഈ നിയന്ത്രിത ഉറവിടം ലീനിയർ ആണ് ഞാൻ പറഞ്ഞതുപോലെ നിയന്ത്രിത ഉറവിടങ്ങളെല്ലാം ലീനിയർ ആയിരിക്കും ഇപ്പോൾ ഇത് വീണ്ടും എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സ്രോതസ്സ് ഉണ്ടായിരുന്നുവെന്ന് പറയട്ടെ അത് G 1 മില്ലി സീമെൻസ് നൽകുന്നു ഇതിനർത്ഥം ഞാൻ ഈ വശത്ത് 1 വോൾട്ട് പ്രയോഗിക്കുകയും മറുവശത്ത് ചില സർക്യൂട്ടുകളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്താൽ അത് 1 മില്ലി ആമ്പിന്റെ ഒരു കറന്റ് അവിടെ ഒഴുകുന്നു സ്വതന്ത്ര കറന്റ് സ്രോതസ്സുകളെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓപ്പൺ സർക്യൂട്ട് നോഡുകളുപയോഗിച്ച് കറണ്ട് ഉറവിടം വരയ്ക്കുന്നത് നിയമാനുസൃതമല്ല കാരണം ഇത് കിർചോഫിന്റെ കറണ്ട് നിയമത്തെ ലംഘിക്കുന്നു പക്ഷേ ചില ഏകപക്ഷീയമായ സർക്യൂട്ടുകളുമായി ബന്ധിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ ഊഹിക്കണം ചില സർക്യൂട്ടിലേക്ക് കണക്റ്റുചെയ്തിരിക്കുമ്പോൾ ഇത് സ്വതന്ത്ര കറണ്ട് ഉറവിടത്തിന്റെ അല്ലെങ്കിൽ നിയന്ത്രിത കറണ്ട് ഉറവിടത്തിന്റെ മൂല്യം നൽകിയ ഒരു നിശ്ചിത അളവിലുള്ള വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നു ചിലപ്പോൾ ഈ നിയന്ത്രിത കറണ്ട് ഉറവിടത്തെ ഒരു ഡിപെൻഡന്റ് ഉറവിടം എന്നും വിളിക്കുന്നു കാരണം നിയന്ത്രിത ഉറവിടത്തിന്റെ മൂല്യം വോൾട്ടേജോ കറന്റോ എന്നത് സർക്യൂട്ടിലെ മറ്റേതെങ്കിലും വേരിയബിളിനെ ആശ്രയിച്ചിരിക്കുന്നു വീണ്ടും ഈ വോൾട്ടേജ് നിയന്ത്രിത കറണ്ട് ഉറവിടം ഒരു റെസിസ്റ്റർ പോലുള്ള ഒരു പ്രത്യക്ഷമായ ഘടകവുമായി പൊരുത്തപ്പെടുന്നില്ല പക്ഷേ ഇത് ചിലതിന്റെ മോഡലാണ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ പോലുള്ള നിരവധി സജീവ ഉപകരണങ്ങൾക്ക് വോൾട്ടേജ് നിയന്ത്രിത കറണ്ട് ഉറവിടം ഒരു നല്ല മോഡലാണെന്ന് പറയാം നമ്മൾ അത് ഇവിടെ ചർച്ച ചെയ്യില്ല പക്ഷേ പിന്നീട് നിങ്ങൾ ട്രാൻസിസ്റ്ററുകളിലേക്ക് വരുമ്പോൾ ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനരീതിയും ചില വ്യവസ്ഥകളും ഒരു വോൾട്ടേജ് നിയന്ത്രിത കറണ്ട് ഉറവിടത്തെ നന്നായി മാതൃകയാക്കിയതായി നിങ്ങൾ കാണും